നമസ്കാരം സർവീസ് മാർകെറ്റിംഗിന്റെ ഈ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേസ് സ്റ്റഡി 3 ചർച്ച ചെയ്യാം ഇത് ഇൻഫർമേഷൻ ടെക്നോളജി സെർവീസ് എന്ന മൂന്നാം നമ്പറിലുള്ള കേസ്സ് ആണ് അതിനാൽ ഇവിടെ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജി സർവീസ് മാർക്കറ്റിംഗ് വെച്ച് ആരംഭിക്കാം ഇൻഫർമേഷൻ ടെക്നോളജി വ്യവസായത്തിലെ വളർച്ച ഒരുപക്ഷേ ഏറ്റവും വേഗതയേറിയതാണ് ഒരു ദശകത്തിനകം അത് ഒരു മൾട്ടി ബില്യൺ ഡോളർ വ്യവസായമായി മാറി ഈ വ്യവസായത്തിൽ ചെറുതും വലുതുമായ കളിക്കാർ ഉണ്ട് ഓരോരുത്തരും തനിക്കായി ഒരു സ്ഥാനം നേടാൻ ശ്രമിക്കുന്നു അതിനാൽ ഈ വ്യവസായത്തിൽ മാർക്കറ്റിംഗ് നിർണായക പങ്ക് വഹിക്കുന്നു അതിനാൽ മാർക്കറ്റിംഗ് ഐടി ചില പ്രശ്നങ്ങൾ എന്നത് നോക്കാം ഒന്ന് അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം ഉണ്ടെന്നതാണ് അതിനാൽ ഐടിക്ക് അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം അനുഭവപ്പെട്ടിട്ടുണ്ട് ഹാർഡ്വെയർ എല്ലായ്പ്പോഴും ലഭ്യമല്ല പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇതിന് ഇൻസ്റ്റാളേഷന് മുമ്പ് ലൈസൻസും മറ്റ് സർക്കാർ അംഗീകാരങ്ങളും ആവശ്യമാണ് ഒരു ബഹുമുഖ ഉൽപ്പന്നം സമീപകാല ഉത്ഭവത്തിന്റെ ഉൽപന്നവും സേവനവുമാണ് ഐടി ഒരുപക്ഷേ ഇത് ഇപ്പോഴും പരമ്പരാഗത വിപണന ലോകത്ത് ക്രമീകരിക്കുന്നു ഒരു വലിയ ഉൽപ്പന്ന ശ്രേണി ഉണ്ട് ഗെയിമുകൾ ബിസിനസ്സ് ഉപകരണങ്ങൾ സാമ്പത്തിക ആപ്ലിക്കേഷൻ യൂട്ടിലിറ്റി ആപ്ലിക്കേഷനുകൾ മുതലായ വലിയ ഉൽപ്പന്ന ശ്രേണിയിൽ ഐടി വിപണനം സങ്കീർണ്ണമാണ് അതിനാൽ ഉൽപ്പന്ന ശ്രേണി ദിവസേന കടന്നുപോകുന്നു തുടർന്ന് സോഫ്റ്റ്വെയർ മേധാവിത്വം ഉണ്ട് ഒരു ഐടി സേവനദാതാവ് ഒരു യന്ത്രം വിൽക്കുകയാണെങ്കിൽ മെഷീനിന് ചുറ്റും സോഫ്റ്റ്വെയറും സേവനങ്ങളും നെയ്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ഉപയോക്താക്കൾ അവർക്ക് നൽകിയിരുന്നത് എടുക്കുകയും ചെയ്തു അതിനാൽ അതാണ് ഹാർഡ്വെയർ ഡിസ്ക് ഹാർഡ്വെയറിൽ ഒരു സോഫ്റ്റ്വെയർ ആധിപത്യം ഉണ്ട് അതിനാൽ ഉയർന്നുവരുന്ന മാർക്കറ്റിംഗ് മിശ്രിതം ബാങ്കിംഗ് സാമ്പത്തിക സേവനം ഖനനം പവർ സ്റ്റീൽ ഗതാഗതം തുറമുഖങ്ങൾ തുടങ്ങിയ നിർദ്ദിഷ്ട മേഖലകളുമായി ഐടി ആപ്ലിക്കേഷനുകൾ ലയിപ്പിക്കുന്ന മാർക്കറ്റിന്റെ ആ വിഭാഗത്തിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടുന്നു പ്രൊഫഷണൽ സേവനങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രത്യേകമായി വൈവിധ്യമാർന്ന കഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഉൾപ്പെടുന്നു അത് പ്രോജക്റ്റുകളിൽ ഉപയോഗപ്പെടുത്താം പിന്നെ സിസ്റ്റം സംയോജനം ഉണ്ട് വ്യവസായത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽ സംയോജിത സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ സാധാരണയായി ടേൺകീ സൊല്യൂഷൻ എന്നറിയപ്പെടുന്നവ നൽകുന്നു അങ്ങനെയാണ് പരിഹാരം നൽകുന്നത് അതിനാൽ അവർ വിവിധ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും വ്യത്യസ്ത വെണ്ടർമാരെ എടുത്ത് ഒരു സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിക്കുന്നു പരിപാലന സേവനങ്ങൾ നിലവിലുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പരിപാലിക്കുന്നതിനുള്ള സേവനങ്ങൾ നൽകുന്നു വിദ്യാഭ്യാസവും പരിശീലനവും സ്വാഭാവികമായും ഐടി വ്യവസായത്തിലെ കുറവുകൾ മനുഷ്യശക്തി നിർണായകമാക്കി ഉൽപ്പന്നത്തിന്റെ വളരെ നിർണായക ഘടകമായി പരിശീലനം മാറിയിരിക്കുന്നു സാങ്കേതികവിദ്യ അധിഷ്ഠിത ആപ്ലിക്കേഷൻ അതിനാൽ വ്യവസായത്തിന്റെ വ്യത്യസ്ത സാങ്കേതികവിദ്യകളിൽ പുരോഗതിയുടെ ചരിത്രമുണ്ട് സാങ്കേതികവിദ്യയുടെ വിസ്ഫോടനം വ്യത്യസ്ത മേഖലകളാണ് എല്ലാ സാങ്കേതികവിദ്യകളിലും നിക്ഷേപം നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ മാർക്കറ്റിന്റെ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ വിഭാഗം വളരെ മത്സരാധിഷ്ഠിതവും വേഗത്തിലുള്ള മാറ്റങ്ങൾക്ക് നൽകപ്പെടുന്നതുമാണ് അതിനാൽ ഇവയാണ് ഐടി സേവനങ്ങളിൽ ഉയർന്നുവരുന്ന മാർക്കറ്റിംഗ് മിശ്രിതം അങ്ങനെ സംഗ്രഹം മുകളിലുള്ള 7 ഘടകങ്ങളുടെ കൂട്ടം മിക്കവാറും ഐടി ഓർഗനൈസേഷനുകൾക്ക് പ്രാധാന്യമുള്ളതായി കണ്ടെത്തി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ സേവനങ്ങൾ സിസ്റ്റം സംയോജനം പരിപാലന സേവനങ്ങൾ വിദ്യാഭ്യാസം പരിശീലനം സാങ്കേതികവിദ്യ അധിഷ്ഠിത ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകൾ തുടങ്ങിയവ പ്രാധാന്യമർഹിക്കുന്നു വിദ്യാഭ്യാസവും പരിശീലനവും മാർക്കറ്റിംഗ് മിശ്രിതത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായി കാണപ്പെടുന്നു അടുത്തതായി നമ്മൾ ടെലികോം സേവന വിപണനത്തിലേക്ക് വരുന്നു അതിനാൽ ഇവിടെ ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായം അതിവേഗം വളരുകയാണ് 1 ബില്യൺ വരിക്കാരുള്ള രണ്ടാമത്തെ വലിയ വയർലെസ് ശൃംഖലയാണ് ഇന്ത്യയുടേത് ഇന്ത്യയിൽ ഗണ്യമായ അർബൻ 148 03 ഗ്രാമീണ 50 95 മൊബൈൽ നുഴഞ്ഞുകയറ്റമുണ്ട് ഈ വിപണിയിൽ നിരവധി വലിയ കളിക്കാർ ഉണ്ട് മത്സരം വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാകുന്നു ഈ വ്യവസായത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ടെലഫോൺ റെഗുലേറ്ററി അതോറിറ്റി അതായത് ട്രായ് ആണ് അതിനാൽ നഗരപ്രവേശനം 100ൽ കൂടുതലാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ പൊതുവെ ചില ആളുകളിൽ ഒന്നര മൊബൈൽ ഫോൺ ഉണ്ട് അതിനാൽ ചിലതിൽ 2 ചിലർക്ക് 1 ഉണ്ട് ചിലതിൽ 2 ൽ കൂടുതലുണ്ട് ചിലതിൽ ഇല്ല അതിനാൽ ശരാശരി 148 ഇന്ത്യയിലെ നഗരപ്രവേശനമാണ് അതിനാൽ ടെലികോം സേവനങ്ങളുടെ 7 P കൾ അല്ലെങ്കിൽ ടെലികോം സേവനങ്ങളുടെ മാർക്കറ്റിംഗ് മിശ്രിതം സേവനങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ 7 പി ഉണ്ട് അതിനാൽ ആദ്യത്തെ പി ഉൽപ്പന്നമാണ് അതിനാൽ വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ പ്രീപെയ്ഡ് ഉൽപ്പന്നം പോസ്റ്റ് പെയ്ഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഡാറ്റ അതായത് 2 ജി 3 ജി 4 ജി മൂല്യവർദ്ധിത സേവനങ്ങൾ റോമിംഗ് ഡിജിറ്റൽ അതിനാൽ ഇവയാണ് സേവന ഉൽപ്പന്നങ്ങളുടെ തരം അപ്പോൾ നമ്മൾ സേവന വിലനിർണ്ണയത്തിലേക്ക് വരുന്നു അതിനാൽ ഏറ്റവും കുറഞ്ഞ വിലയാണ് നൽകുന്നത് ഉപഭോക്തൃ അധിഷ്ഠിത വിലനിർണ്ണയ തന്ത്രം ഉണ്ട് വിലകൾ ട്രായ് നിയന്ത്രിക്കുന്നു കൂടാതെ വഴക്കമുള്ള വിലനിർണ്ണയവും ഉണ്ട് കൂടാതെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് വ്യത്യസ്ത തരം വിലനിർണ്ണയ ഫോർമുല അല്ലെങ്കിൽ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ സേവനങ്ങൾക്കുള്ള വ്യത്യസ്ത തരം വിലവിവര പട്ടിക ഉണ്ട് ഇനി സ്ഥലം ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ വിശാലവും വിപുലവുമായ കവറേജ് ഉണ്ട് കസ്റ്റമർ കെയർ ടച്ച് പോയിന്റ് ഉണ്ട് വിതരണക്കാർ ഉണ്ട് ടെലികോം സേവനങ്ങളുടെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതിനാൽ അങ്ങനെയാണ് വിതരണങ്ങൾ പ്രമോഷന്റെ കാര്യത്തിൽ പരസ്യം സെയിൽസ് പ്രൊമോഷൻ ഡയറക്ട് മാർക്കറ്റിംഗ് ഡിജിറ്റൽ സ്റ്റോറുകൾ ഡിജിറ്റൽ ഹോർഡിംഗുകൾ സ്പോൺസർഷിപ്പുകൾ പബ്ലിക് റിലേഷൻസ് ഇ മെയിൽ എന്നിവയുണ്ട് അതിനാൽ ഇവയെല്ലാം ടെലികോം സേവനങ്ങളുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു ആളുകൾ കസ്റ്റമർ കെയർ സേവനങ്ങൾ കോൾ സെന്ററുകൾ ജീവനക്കാരെ ആശ്രയിക്കുന്നു അതിനാൽ ടെലികോം സേവനങ്ങൾ ടെലികോം കമ്പനിയിലെ ജീവനക്കാർ വിതരണക്കാരുടെ മാനേജ്മെന്റ് ടെലികോമിൽ ഉപഭോക്താവിനൊപ്പം പ്രവർത്തിക്കാൻ ആളുകൾക്ക് നൽകുന്ന പ്രതിഫലം അംഗീകാരം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ പ്രക്രിയയിൽ എളുപ്പത്തിലുള്ള പ്രവേശനക്ഷമത ഡോക്യുമെന്റേഷൻ 24 ബൈ 7 ഉപഭോക്തൃ പിന്തുണ ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഈ 24 ബൈ 7 ഉപഭോക്തൃ പിന്തുണ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും പലതവണ അത്തരം പിന്തുണ ബുദ്ധിമുട്ടായിത്തീരുന്നു ഇത് യഥാർത്ഥത്തിൽ നൽകിയിട്ടില്ല ഉപഭോക്താക്കളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് തരം തിരിച്ചിരിക്കുന്നു എന്നാൽ ഉപഭോക്താക്കൾ ഫീഡ്ബാക്ക് നൽകുന്നില്ല പകരം പ്രതികരണങ്ങളെക്കാൾ കൂടുതൽ അവരുടെ മൊബൈൽ പ്രവർത്തനത്തിൽ താൽപ്പര്യമുണ്ട് അതിനാൽ 24 ബൈ 7 ഉപഭോക്തൃ പിന്തുണ ടെലികോം സേവന പ്രക്രിയയ്ക്ക് വളരെ പ്രധാനമാണ് ഭൌതിക തെളിവുകൾ കൂടുതൽ ശാരീരിക തെളിവുകൾ ഇല്ല സിം കാർഡ് അല്ലെങ്കിൽ ഡാറ്റ കണക്റ്റർ അല്ലെങ്കിൽ സേവന ഔട്ട്ലെറ്റ് റീചാർജ് വൌച്ചറുകൾ രാജ്യത്തെ ടെലികോം സേവനങ്ങളുടെ ഗുണനിലവാരം എന്താണെന്ന് വിലയിരുത്താൻ ഉപഭോക്താവിന് ലഭിക്കുന്ന ചില തെളിവുകളും ക്യൂകളുമാണ് ഇവ അതിനാൽ ടെലികോം വ്യവസായത്തിൽ കടുത്ത മത്സരമുണ്ട് പുതുതായി രംഗപ്രവേശം ചെയ്ത റിലയൻസ് ജിയോ വിപണിയിലെ ഘടന മാറ്റി അവർ 6 മാസമോ അതിൽ കൂടുതലോ വാഗ്ദാനം ചെയ്യുന്നു അവർ 4G സ്ഥലത്ത് സൌജന്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കോൾ നിരക്കുകളിലും ഡാറ്റ നിരക്കുകളിലും കുറവുണ്ട് ഓപ്പറേറ്റർ പോർട്ടബിലിറ്റി കാരണം ഉപഭോക്തൃ അടിത്തറ നിലനിർത്തുന്നത് സേവന ദാതാവിന് വളരെ ബുദ്ധിമുട്ടാണ് ഉപഭോക്താവിന് തന്റെ മൊബൈൽ നമ്പർ നിലനിർത്താനും മറ്റേതെങ്കിലും സേവന ദാതാവിലേക്ക് എളുപ്പത്തിൽ പോകാനും കഴിയും അതിനാൽ മികച്ച സേവനദാതാക്കൾക്ക് മാത്രമേ തങ്ങളുടെ ഉപഭോക്താക്കളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റാൻ കഴിയൂ ഉപഭോക്തൃ തിരക്ക് കുറയ്ക്കുന്നതിന് നൂതനമായ തന്ത്രങ്ങൾ ആവശ്യമാണ് അതിനാൽ യഥാർത്ഥ ഉപഭോക്തൃ ബന്ധ വിപണനം ഉപഭോക്താവുമായി യഥാർത്ഥ ബന്ധം അവർക്ക് മികച്ച സേവനങ്ങൾ നൽകുക ടെലിഫോൺ സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവ വളരെ പ്രധാനമാണ് ഇനി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സർവീസിലേക്ക് വരാം അതായത് ഇൻറർനെറ്റ് അനുഭവങ്ങൾ അതിനാൽ ഒരു ആമുഖമെന്ന നിലയിൽ ഇന്റർനെറ്റ് വളരെ സമീപകാല പ്രതിഭാസമാണെന്ന് പലരും അനുമാനിക്കുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ആരംഭിച്ചത് 1960 കളുടെ അവസാനത്തിലാണ് എന്നിരുന്നാലും 1990 കളുടെ തുടക്കത്തിൽ കുറച്ച് ആളുകൾ യഥാർത്ഥത്തിൽ ഇന്റർനെറ്റ് എന്തിനുവേണ്ടിയും ഉപയോഗിച്ചത് വിദൂരമായി ബിസിനെസ്സിനോട് സാമ്യം ഉളവാക്കുന്നതായി 1993 ൽ വേൾഡ് വൈഡ് വെബ് എന്ന പുതിയ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചതോടെ കാര്യങ്ങൾ ഒരുപാട് മാറി ഇന്റർനെറ്റ് ഒരു ആശയവിനിമയ മാധ്യമമെന്ന നിലയിലും വിവരങ്ങളുടെ കലവറ എന്ന നിലയിലും കമ്പ്യൂട്ടർ ഉപയോക്താക്കളുടെ ഭാവനയെ ആകർഷിച്ചു അതിനാൽ എങ്ങനെയാണ് ഇന്റർനെറ്റ് മാർക്കറ്റ് ചെയ്യുന്നത് അതിനാൽ ഇന്റർനെറ്റിൽ മാർക്കറ്റിംഗ് എന്നത് ഒരു ബ്രാൻഡ് സ്ഥാപിക്കുന്നതിനും വിൽപ്പന അളവ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള വളരെ കുറഞ്ഞ ചിലവിലുള്ള ഒരു തന്ത്രമാണ് പ്രധാനമായും വിപണനക്കാർക്ക് ഇന്റർനെറ്റ് നൽകുന്ന 4 സേവനങ്ങൾ ഉണ്ട് അതിനാൽ വിൽപ്പനയും പിന്തുണയും ഉപഭോക്തൃ പിന്തുണ ആശയവിനിമയം പേയ്മെന്റുകളും സെറ്റിൽമെന്റും മാർക്കറ്റിംഗ് ഗവേഷണവും ഫീഡ്ബാക്കും ഉണ്ട് ഇന്റർനെറ്റിലെ മാർക്കറ്റിംഗ് പ്ലാൻ അതിനാൽ വസ്തുനിഷ്ഠവും ടാർഗെറ്റ് ചെയ്തതുമായ പ്രേക്ഷകരെ നിർവചിക്കുക മാനവശേഷിയുടെയും വിഭവങ്ങളുടെയും വിലയിരുത്തൽ വെബ് സൈറ്റുകൾ ഗവേഷണം ചെയ്യുക ഹൈപ്പർ ടെക്സ്റ്റ് മാർക്ക്അപ്പ് ലാംഗ്വേജ് HTML നേടുക ഹോം പേജിന്റെ രൂപരേഖ തയ്യാറാക്കുക അനുയോജ്യമായ ബാഹ്യ ലിങ്ക് തിരിച്ചറിയൽ ആന്തരിക പ്രമാണങ്ങൾ തയ്യാറാക്കുക വെബ് പേജ് സൃഷ്ടിക്കൽ വെബ്സൈറ്റിന്റെ പരിശോധനയും മെച്ചപ്പെടുത്തലും വെബ്സൈറ്റ് പരിപാലിക്കുക ഇന്റർനെറ്റിന്റെ ചില മാർക്കറ്റിംഗ് പ്ലാനുകളുടെ ആവശ്യകതകൾ ഇവയാണ് ഇനി അത് എങ്ങനെ വിജയകരമാക്കാം അതിനാൽ ഇതിന് മൂല്യനിർണയം ആവശ്യമാണ് ഇൻറർനെറ്റിലെ മാർക്കറ്റിംഗിന് മൂല്യനിർണയം ആവശ്യമാണ് ലക്ഷ്യങ്ങൾ നിർവ്വചിക്കേണ്ടതുണ്ട് ഓർഗനൈസേഷനിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കുക ടീം രൂപീകരണം വിശദമായ സവിശേഷതകളുടെ രൂപീകരണം ഇന്റർനെറ്റ് സേവന ദാതാവിനെ തിരിച്ചറിയൽ ബ്ലൂപ്രിന്റ് വികസനം വെബ്സൈറ്റിന്റെ പ്രമോഷൻ സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുക ഫീഡ്ബാക്കിൽ ശ്രദ്ധിക്കുക അതിനാൽ ഇൻറർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇന്ത്യയിൽ വികസനം കുറവാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്റ്റിവിറ്റി കുറവാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികസനവും ഡിജിറ്റലൈസ്ഡ് ഇന്ത്യയ്ക്കായുള്ള സർക്കാർ നയവും വ്യവസായത്തിന് ഉത്തേജനം നൽകി ഇപ്പോൾ വലിയ കളിക്കാർ വിപണിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ മീഡിയ മാർക്കറ്റിംഗ് സർവീസിലേക്ക് വരികയാണ് അതായത് മാധ്യമ സേവനങ്ങളുടെ വിപണനം ഇക്കാലത്ത് മാധ്യമങ്ങൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രചരിപ്പിക്കുന്നതിലും സ്ഥാനപ്പെടുത്തുന്നതിലും നിർണായക പങ്കാണ് വഹിക്കുന്നത് ഡിജിറ്റലൈസേഷൻ മീഡിയയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ബ്രാൻഡിംഗിൽ പ്രധാന പങ്ക് വഹിക്കുന്നു സേവനദാതാക്കൾ വിവരങ്ങൾ നൽകുന്നതിനും ഉപഭോക്താക്കൾ ഫീഡ്ബാക്ക് നൽകുന്നതിനും മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു മാധ്യമങ്ങളുടെ വർഗീകരണം പത്രങ്ങൾ മാസികകൾ ഫ്ലയേഴ്സ് പോസ്റ്ററുകൾ ബ്രോഷറുകൾ സ്കൈ റൈറ്റിംഗ് തുടങ്ങിയവ പ്രിന്റ് മാധ്യമവും റേഡിയോ ടെലിവിഷൻ ഇൻറർനെറ്റ് വെബ്സൈറ്റ് തുടങ്ങിയവ ബ്രോഡ്കാസ്റ്റ് മാധ്യമവും ആണ് അതിനാൽ മീഡിയ സേവന മാർക്കറ്റിംഗ് മിശ്രിതം ഉൽപ്പന്നം ഉൾക്കൊള്ളുന്നു അതിനാൽ 7 P യുടെ ആദ്യത്തേത് ഉൽപ്പന്നമാണ് ഉപഭോക്തൃ മനശാസ്ത്രവും ഉൽപ്പന്നങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് സേവന ദാതാവ് പരിഷ്കരിച്ച ഉള്ളടക്കമാണ് പ്രധാന ഉൽപ്പന്നം ബ്രോഡ്കാസ്റ്ററാണ് വിലനിർണ്ണയം തീരുമാനിക്കുന്നത് അത് പരസ്യത്തിന്റെ സമയവും സ്ഥലവും ആവൃത്തികളും അനുസരിച്ചായിരിക്കും സ്ഥലം മീഡിയ സേവനങ്ങൾ ഓഫീസിലോ ഓൺലൈനിലോ വിതരണം ചെയ്യാം പ്രമോഷൻ ഈ വ്യവസായത്തിന് നല്ല ഉള്ളടക്കമാണ് മികച്ച പരസ്യം ആശയവിനിമയത്തിനുള്ള ജനപ്രിയ രീതികളാണ് വാമൊഴിയും പബ്ലിക് റിലേഷനുകളും ആളുകൾ ബ്രാൻഡ് വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യങ്ങൾ നേടുന്നതിനും ആളുകൾ സംഘടനകളെ സഹായിക്കുന്നു പ്രക്രിയ ആസൂത്രണവും ഷെഡ്യൂളിംഗും സാങ്കേതികവിദ്യയും ഫീഡ്ബാക്കും ആയ 3 പ്രധാന ഘടകങ്ങളുടെ സംയോജനമാണ് പ്രക്രിയ ഭൌതിക തെളിവുകൾ ഉള്ളടക്കം ബ്രാൻഡ് ഇമേജ് സാങ്കേതികവിദ്യ ബന്ധപ്പെട്ട മാധ്യമ വ്യക്തിത്വങ്ങൾ ലോഗോ എന്നിവ ഭൌതിക തെളിവുകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് അപ്പോൾ മാധ്യമ ആസൂത്രണത്തിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ടാർഗെറ്റ് പ്രേക്ഷകരെയും അതിന്റെ മാധ്യമ മുൻഗണനകളെയും കുറിച്ചുള്ള പഠനം ഇതാണ് ആദ്യപടി അടുത്തത് കമ്പനിയുടെ ആന്തരിക വിശകലനം പിന്നെ ലക്ഷ്യങ്ങൾ മീഡിയ തന്ത്രം രൂപീകരണം ചാനൽ തിരഞ്ഞെടുക്കൽ സമയം സ്ഥലം ആവൃത്തി എന്നിവ സംബന്ധിച്ച തീരുമാനം അന്തിമ നിർദ്ദേശം പ്രചാരണാനന്തര അവലോകനം അതിനാൽ മീഡിയ ആസൂത്രണത്തിലെ ഘട്ടങ്ങൾ ഇവയാണ് മാധ്യമ സേവനങ്ങളുടെ മുഖം വർഷങ്ങളായി മാറിയിരിക്കുന്നു അച്ചടി റേഡിയോ ടെലിവിഷൻ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ എന്നിവയിൽ മാധ്യമ സേവനങ്ങളുടെ പരിണാമം സംഭവിച്ചു ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനുകളും അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മീഡിയ സേവനങ്ങൾ ഉപയോഗിക്കുന്നു മീഡിയ സേവനങ്ങളിലെ വിജയത്തിനുള്ള താക്കോലാണ് ഉള്ളടക്കം അതിനാൽ ഇത് ഉപഭോക്താക്കളുടെ അഭിരുചിക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് വികസിപ്പിക്കുകയും നൽകുകയും വേണം അടുത്തതായി നമ്മൾ മാധ്യമ സേവന വിപണനത്തിന്റെ പത്ര വിപണന ഭാഗത്തേക്ക് പോകുന്നു അതിനാൽ പത്രം ഒരു ഉൽപന്നമാണോ അതോ സേവനമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് എന്നിരുന്നാലും ഉപഭോക്താക്കൾ ഇത് ഉള്ളടക്കത്തിനും വിവര മൂല്യത്തിനും വേണ്ടി വാങ്ങുന്നു അത് വ്യക്തമായ സവിശേഷതകളല്ല അതിനാൽ ഇത് സേവന വ്യവസായമായി തരംതിരിച്ചിരിക്കുന്നു 6700 ലധികം പ്രസിദ്ധീകരണങ്ങളും 300 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളും ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ പത്ര വിപണിയാണ് ഇന്ത്യ ഇത് ഹിന്ദി ഇംഗ്ലീഷ് ഉർദു മറ്റ് പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ആവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈനംദിന പ്രതിവാര ദ്വിമാസ അല്ലെങ്കിൽ പ്രതിമാസ പത്രങ്ങൾ എന്നിങ്ങനെ പത്രങ്ങളെ തരം തിരിക്കാം ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു പ്രാദേശിക ഭാഷകൾ എന്നിങ്ങനെ ഉണ്ട് ഉൾക്കൊള്ളുന്ന വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ദേശീയ അല്ലെങ്കിൽ പ്രാദേശിക പത്രങ്ങൾ ഉണ്ട് അച്ചടിച്ച പകർപ്പ് പത്രവും ഇലക്ട്രോണിക് പത്രവുമാണ് ഫോർമാറ്റിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് പത്ര മാർക്കറ്റിംഗിന്റെ 7 P കൾ ഏതാണ് ഇപ്പോൾ ഉൽപ്പന്നം പത്ര വ്യവസായത്തിന്റെ പ്രധാന ഉൽപ്പന്നമാണ് ഉള്ളടക്കം അന്താരാഷ്ട്ര ദേശീയ പ്രാദേശിക ബിസിനസ്സ് ശാസ്ത്ര സാങ്കേതികവിദ്യകൾ കായികം വിനോദ പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളടക്കത്തിന്റെ പ്രധാന ഉറവിടമാണ് ഈ ദിവസങ്ങളിലെ മിക്ക പത്രങ്ങളും ഉള്ളടക്കത്തെ തരംതിരിക്കുകയും ലഭ്യമായ ഒരു നിർദ്ദിഷ്ട ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നു അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല വാർത്തകൾ വിശകലനം ചെയ്യുകയും അവർ വിശകലനം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി പത്രം മാർക്കറ്റിംഗിന്റെ 7 പി യുടെ ആദ്യ സേവനങ്ങളിൽ ഉള്ള ഉൽപ്പന്നമാണ് രണ്ടാമത്തെ പി അതാണ് വില ഈ വ്യവസായത്തിന്റെ വിലനിർണ്ണയ നയം മറ്റ് വ്യവസായങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിലയിൽ മാർക്ക്അപ്പ് ചേർത്ത് വില നിശ്ചയിക്കില്ല പകരം അവർ വിലനിർണ്ണയത്തിലെ കുറവ് നികത്തുകയും പരസ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വരുമാനത്തിലൂടെ ലക്ഷ്യമിട്ട ലാഭം മനസ്സിലാക്കുകയും വേണം സ്ഥലം പത്ര വിൽപനയിൽ കടുത്ത നശിക്കുന്ന ഉൽപന്നങ്ങൾ കടുത്ത സമയ പരിമിതികളിൽ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടുന്നു വിതരണക്കാർ നിയോഗിക്കുന്ന സെയിൽസ്മാൻ മുഖേനയാണ് സാധാരണഗതിയിൽ സർക്കുലേഷൻ നടക്കുന്നത് അത് കച്ചവടക്കാർക്ക് കൈമാറുന്നു വിതരണ ചാനലിലെ അവസാന കണ്ണിയാണ് ഹോക്കർമാർ അല്ലെങ്കിൽ വെണ്ടർമാർ അതിനാൽ പ്രതികരണശേഷിയും അതായത് ഉപഭോക്തൃ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അത് വേഗത്തിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ടീം വർക്കും കാര്യക്ഷമതയും പത്രപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു പ്രമോഷൻ വിപണനക്കാർ പ്രതികരണങ്ങൾ ശേഖരിക്കുന്നതിനും വെബ് പതിപ്പിനുള്ള നേരിട്ടുള്ള വിപണനം ഉൽപ്പന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനുള്ള പരസ്യം കോർപ്പറേറ്റ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പരസ്യങ്ങൾ എന്നിവയ്ക്കായി വ്യക്തിഗത വിൽപ്പന ഉപയോഗിക്കുന്നു പ്രമോഷൻ ചെലവുകൾ ചാനൽ അംഗങ്ങൾക്ക് പങ്കിടാം അല്ലെങ്കിൽ ഒരു പ്രത്യേക ചാനൽ അംഗം മാത്രം വഹിച്ചേക്കാം ജനങ്ങളും ഏജന്റുമാരും മറ്റ് ചാനൽ അംഗങ്ങളും പത്രത്തിന്റെ പ്രചരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു വിവരശേഖരണത്തിനും ഉള്ളടക്ക വികസനത്തിനും യോഗ്യതയുള്ള ഉദ്യോഗസ്ഥർ ആവശ്യമാണ് പ്രക്രിയ ഉള്ളടക്ക സൃഷ്ടി പ്രസിദ്ധീകരണം വിതരണം ഉപഭോഗം എന്നിവയാണ് പത്ര വിപണന പ്രക്രിയയുടെ പ്രധാന ഘടകങ്ങൾ ഭൌതിക തെളിവുകൾ വർണ്ണവും വലുപ്പവും പ്രിന്റിംഗ് ഗുണനിലവാരവും പേപ്പർ ഗുണനിലവാരവും പത്രത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് ഉപഭോക്താവിന് വ്യക്തമായ ചോദ്യങ്ങൾ നൽകുന്ന ഭൌതിക തെളിവുകളുടെ പ്രധാന ഘടകങ്ങളാണ് അതിനാൽ പത്രം ഒരു ഉൽപ്പന്നമാണ് അത് അതിന്റെ വിലയ്ക്ക് താഴെ വിൽക്കുകയും നഷ്ടം പരസ്യത്തിലൂടെ നികത്തപ്പെടുകയും ചെയ്യും എന്നിരുന്നാലും വിൽപ്പന അളവ് കുറവാണെങ്കിൽ ആരും ഒരു പ്രത്യേക പത്രത്തിൽ പരസ്യം നൽകില്ല ആധുനിക വിപണന പ്രവർത്തനങ്ങളും ഇ പത്രവും വിപണനക്കാരന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയായി ഉയർന്നുവരുന്നു അടുത്തതായി നമ്മൾ മീഡിയ സേവനങ്ങളുടെ വിപണനത്തിന്റെ ഭാഗമായി ബ്രോഡ്കാസ്റ്റിംഗ് സേവന വിപണനത്തിലേക്ക് പോകുന്നു റേഡിയോ ടെലിവിഷൻ അല്ലെങ്കിൽ മറ്റ് മീഡിയ ചാനൽ വഴി ഓഡിയോ വീഡിയോ ഉള്ളടക്കം വിതരണം ചെയ്യുന്നതാണ് പ്രക്ഷേപണം ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യവസായമാണ് ഇന്ത്യൻ പ്രക്ഷേപണ വ്യവസായം വിനോദം കായികം വാർത്ത ബിസിനസ്സ് മതം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി 900 ൽ അധികം ചാനലുകൾ ഇന്ത്യയിൽ ലഭ്യമാണ് ചാനലുകൾ ഹിന്ദി ഇംഗ്ലീഷ് ഉർദു പഞ്ചാബി മറാത്തി തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ് ഓഡിയോ ഉള്ളടക്കത്തിന്റെ വ്യാപനത്തിനായി നിരവധി റേഡിയോ ചാനലുകളും ലഭ്യമാണ് ബ്രോഡ്കാസ്റ്റിംഗ് സേവനത്തിന്റെ 7 പി എന്താണ് അതിനാൽ പ്രക്ഷേപണ സേവനങ്ങളിൽ ആദ്യം 3 P കൾ അതായത് ഉൽപ്പന്നം പ്രമോഷൻ സ്ഥലം എന്നിവ ഉള്ളടക്കത്തിലൂടെ മാത്രമേ തീരുമാനിക്കൂ പ്രേക്ഷകരുടെ വൈകാരിക പ്രതികരണങ്ങൾ അനുസരിച്ച് ഉള്ളടക്കം ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ രൂപത്തിലാണ് ഈ ഉള്ളടക്കം വികസിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ടത് അതിനാൽ വില പ്രധാന വരുമാനം പരസ്യത്തിലൂടെയാണ് വരുന്നത് വീഡിയോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ ചില തുക സബ്സ്ക്രിപ്ഷൻ ഫീസായി ഉപഭോക്താവിനോട് ഈടാക്കുന്നു ട്രായ് വില നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഷോയുടെ ജനപ്രീതി സമയം ആവൃത്തി പ്രത്യേക അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് പരസ്യ നിരക്ക് തീരുമാനിക്കുന്നത് ആളുകൾ ഈ വ്യവസായത്തിൽ സ്ഥാനനിർണ്ണയത്തിനും തിരിച്ചറിഞ്ഞ വ്യത്യാസം വികസിപ്പിക്കുന്നതിനും ആളുകൾ വളരെ പ്രധാനമാണ് ഏതെങ്കിലും ബ്രോഡ്കാസ്റ്ററുമായി ബന്ധപ്പെട്ട വ്യക്തിത്വം ബ്രോഡ്കാസ്റ്റിംഗ് സേവനത്തിന്റെ ബ്രാൻഡ് ഇമേജിന്റെ പ്രതിനിധിയാണ് പ്രക്രിയയുടെ ആസൂത്രണവും ഷെഡ്യൂളിംഗും പ്രക്രിയയുടെ പ്രധാന ഘടകമാണ് സാങ്കേതികവിദ്യ നിർണായക പങ്ക് വഹിക്കുന്നു കാഴ്ചക്കാരന്റെയോ ശ്രോതാവിന്റെയോ ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ് ശാരീരിക തെളിവുകൾ ലോഗോ പ്രൊമോ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ബ്രോഡ്കാസ്റ്റിംഗ് സേവനങ്ങൾ എന്നിവ ശാരീരിക തെളിവുകളുടെ നിർണായക ഘടകങ്ങളാണ് സാങ്കേതിക പുരോഗതിയും ഉള്ളടക്കവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രക്ഷേപണ വ്യവസായം വളരെ വേഗത്തിൽ വളർന്നു മത്സരം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യവസായത്തിലെ വിജയ ഘടകം കാഴ്ചക്കാരും പരസ്യവുമാണ് ഏതൊരു പ്രക്ഷേപണ സേവനവും നൽകുന്ന ഓർഗനൈസേഷന്റെ വിജയത്തിൽ ഉള്ളടക്കം നിർണ്ണായക പങ്ക് വഹിക്കുന്നു ഫലപ്രദമായ മാർക്കറ്റിംഗ് ആന്തരികവും ബാഹ്യവുമായ മാർക്കറ്റിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ് പ്രധാന വിജയ ഘടകങ്ങൾ അതിനാൽ എഫ്എം സേവനങ്ങൾ ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സേവനങ്ങൾ കഴിയുന്നിടത്തോളം എത്തിച്ചേരാൻ വളരെ നല്ലതായിരിക്കണം അതിനാൽ പരസ്യങ്ങൾ ഒരു വലിയ ജനതയ്ക്ക് അർത്ഥവത്താകുന്നു അതിനാൽ ഈ സെഷനിൽ ഇത്രേയുള്ളൂ വളരെ നന്ദി ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു